ഇപ്പോൾ ചില ഉദാഹരണ സർക്യൂട്ടുകൾക്കായി നമ്മൾ h പാരാമീറ്ററുകൾ സാധാരണ പോലെ കണക്കാക്കും മറ്റ് രണ്ട് പാരാമീറ്ററുകൾക്കായി നമ്മൾ ചെയ്ത അതേ സർക്യൂട്ട് നമ്മൾ എടുക്കും അതുവഴി നിങ്ങൾക്ക് ഫലങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയും ഇതാണ് സർക്യൂട്ട് പോർട്ട് 1 പോർട്ട് 2 എന്നിവയുടെ പാരാമീറ്ററുകൾ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും രണ്ട് കേസുകൾ നോക്കാം കേസ് 1 പോർട്ട് 2 നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു നിങ്ങൾ പോർട്ട് 1 ലേക്ക് കറന്റ് പ്രയോഗിക്കുന്നു പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ആയത് രണ്ടാമത്തെ കേസ് നിങ്ങൾ ഒരു വോൾട്ടേജ് പോർട്ട് 2ൽ പ്രയോഗിക്കുന്നു ഇപ്പോൾ ഇത് ഒരുതരം ആവർത്തനമാണ് അതിനാൽ നിങ്ങൾക്ക് സർക്യൂട്ട് വിശകലനം വളരെ പരിചിതമാണ് ഇതിന്റെ h പാരാമീറ്ററുകൾ കണക്കാക്കി പ്രഭാഷണത്തിന്റെ അവസാനം വരെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു പ്രത്യേകിച്ചു ഈ സർക്യൂട്ട് വിശകലനവും ഈ പാരാമീറ്റർ നിർവചനങ്ങളും മറ്റും നിങ്ങൾക്ക് അത്ര സുഖകരമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഭാഷണം പിന്തുടരാം വീണ്ടും ആദ്യം കണക്കുകൂട്ടലുകൾ ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ നമ്മൾക്ക് പ്രഭാഷണം പൂർണ്ണമായും പിന്തുടരാം അതിനാൽ ഇപ്പോൾ ഇതിൽ ഞാൻ വിലയിരുത്തേണ്ടത് ഈ ദിശയിലുള്ള I2 ആണ് കൂടാതെ രണ്ട് സർക്യൂട്ടുകൾക്കും I2 V1 ഒരുപോലെയാണ് അതിനാൽ നമുക്ക് ഇവിടെ ആദ്യ സർക്യൂട്ട് എടുക്കാം പോർട്ട് 2 ൽ ഉടനീളമുള്ള ഈ ഷോർട്ട് സർക്യൂട്ട്ൽ ഈ 1 കിലോ Ω റെസിസ്റ്റർ ഷോർട്ട് ചെയ്യപ്പെടുന്നു അതിനാൽ ഈ 1 കിലോ Ω ലൂടെ കറന്റ് ഒഴുകുന്നില്ല കൂടാതെ I1 മുഴുവനും ആ ദിശയിലേക്ക് ഒഴുകുന്നു ആ വഴിക്ക് ഒഴുകുന്നു അതിനാൽ ഈ V1 മറ്റൊന്നുമല്ല ഈ 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അത് 1 കിലോ Ω × I1 ആണ് അതിനുശേഷം നമുക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് അതിനാൽ V1 എന്നത് 1 കിലോ Ω × I1 ഉം ആണ് I2 ഈ കറന്റ് I1 ന്റെ വിപരീതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ കറന്റ് I2 I1 ആണ് ഇവ രണ്ടിൽ നിന്നും നമുക്ക് h11 എന്താണ് ലഭിക്കുന്നത് V1 I1 V2 0 ആയി സജ്ജീകരിച്ചിരിക്കുന്നു അത് 1 കിലോ Ω ഉം h21 ഉം ആയി വരുന്നു അതായത് I2 I1 V2 0 ആയി സജ്ജീകരിക്കുന്നു ഇത് 1 ആയി മാറുന്നു അതിനാൽ h11 ന് റെസിസ്റ്ററിന്റെ ഡയമെൻഷൻ ഉണ്ടെന്നും h21 ന് ഡയമെൻഷൻലസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെയുള്ള കറന്റ് നേട്ടമാണ് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം അതിനാൽ ഇവിടെ ഈ 1 കിലോ Ω ആണ് ഉള്ളത് ഒരു ഓപ്പൺ സർക്യൂട്ട് ഉള്ള സീരീസ് ആണത് അതിനാൽ ഇതിലൂടെ കറന്റ് ഒഴുകുന്നില്ല ഈ I2 ഈ 1 കിലോ Ω വഴിയുള്ള കറന്റാണ് 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം V2 ദൃശ്യമാകുന്നു അതിനാൽ ഇവിടെ കറന്റ് മറ്റൊന്നുമല്ല V2 നെ 1 കിലോ Ω കൊണ്ട് ഹരിച്ചാൽ കിട്ടും V1 V2 ന് തുല്യമാണ് കാരണം ഈ 1 കിലോ Ω റെസിസ്റ്ററിലൂടെ കറന്റ് ഒഴുകുന്നില്ല അതിനാൽ നമുക്ക് V1 V2 ഉം I2 V2 1 കിലോ Ω അല്ലെങ്കിൽ 1 മില്ലിസീമെൻസ് × V2 ആവുന്നു ഇവ രണ്ടിൽ നിന്നും ഈ സമവാക്യത്തിൽ നിന്ന് h12 1 ആണെന്നും h22 1 മില്ലിസീമെൻസ് ആണെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണാം അതിനാൽ ഇവിടെ പ്രതിരോധം 1 കിലോ Ω ആണ് ഇത് ഒന്ന് മാത്രമാണ് ഇതാണ് 1 അവിടെ നമുക്ക് 1 മില്ലിസീമെൻസ് ഉണ്ട് അതിനാൽ ഈ സർക്യൂട്ടിന്റെ h പാരാമീറ്റർ മാട്രിക്സ് ഇതാണ് അതിനാൽ I കൺട്രോൾ സോഴ്സ് ഉപയോഗിച്ച് കൂടുതൽ സങ്കീർണ്ണമായ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ നമുക്ക് h പാരാമീറ്ററുകൾ 1 കിലോ Ω 1 കിലോ Ω 2 മില്ലിസീമെൻസ് × Vx എന്നിവയും കണക്കാക്കാം Vx ഇവിടെയുണ്ട് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു V2 0 അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പോർട്ട് 2 എന്നും ഒരു കറന്റ് I1 പ്രയോഗിക്കുക എന്നും നമ്മൾക്ക് ഈ വോൾട്ടേജ് V1 ഉം ആ കറന്റ് I2 ഉം കണ്ടെത്തണം അതിനാൽ ഇത് എങ്ങനെ ചെയ്യാം ഒന്നാമതായി I1 ആണ് ഈ 1 കിലോ Ω വഴി ഒഴുകുന്നത് അതിനാൽ ഇതിലുടനീളം നമുക്ക് I1 × 1 കിലോ Ω ഉണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ വോൾട്ടേജ് V1 എന്നത് ഈ 1 കിലോ Ω റെസിസ്റ്ററിലുള്ള വോൾട്ടേജാണ് അതിനാൽ V1 എന്നത് 1 കിലോ Ω × I1 അല്ലെങ്കിൽ h11 അതായത് V1 I1 ആണ് പോർട്ട് 2 ഷോർട്ട്ഡ് 1 കിലോ Ω ആണ് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കാരണം ഈ 1 കിലോ Ω റെസിസ്റ്ററിലൂടെ I1 ഉണ്ടായിരുന്നിട്ടും കറന്റ് ഒഴുകുന്നില്ല അതിനാൽ ഈ I1 ഈ 1 കിലോ Ω ലും ഷോർട്ട് സർക്യൂട്ടിലൂടെയും ഒഴുകുന്നു അതിനാൽ I1 ആ വഴിക്ക് ഒഴുകുന്നു പക്ഷേ അവിടെ ഒഴുകുന്നത് അത് മാത്രം അല്ല കാരണം നമ്മൾക്ക് നിയന്ത്രണ സ്രോതസ്സും ഉണ്ട് കൂടാതെ എത്രത്തോളം നിയന്ത്രണ സ്രോതസ്സ് എന്നത് 2 മില്ലിസീമെൻസ് × Vx ആണ് Vx എന്നിവ മറ്റൊന്നുമല്ല V1 ആണ് കൂടാതെ V 1 എന്നത് 1 കിലോ Ω × I1 ആണ് അതിനാൽ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഈ ദിശയിലേക്കു ഒഴുകുന്ന ഈ കറന്റ് ഇവിടെയുണ്ട് കാരണം കൺട്രോൾ കറന്റ് സോഴ്സിൽ ഉടനീളം ഒരു ഷോർട്ട് സർക്യൂട്ട് ഉള്ളതിനാൽ അതെല്ലാം ഷോർട്ട് വഴി ഒഴുകും സർക്യൂട്ട് ഓർക്കുക ഇത് I1 ന്റെ വിപരീത ദിശയാണെന്നും അത് 2 മില്ലിസീമെൻസ് × Vx ആണ് അതായത് V1 അതായത് 1 കിലോ Ω × I1 അത് 2 I1 ആണ് അതിനാൽ നമുക്ക് I1 ഈ വഴി നേരിട്ട് ഒഴുകുന്നു 2 I1 അവ ഒഴുകുന്നു അതിനാൽ ഈ ഷോർട്ട് സർക്യൂട്ടിൽ ഒഴുകുന്ന യഥാർത്ഥ കറന്റ് ഈ I1 അവിടെ ഞാൻ കാണിച്ച മൊത്തം കറന്റ് ആണ് ഇവിടെ ഒഴുകുന്ന കറന്റ് അല്ല അവിടെ ഒഴുകുന്ന യഥാർത്ഥ കറന്റ് I1 ന്റെ ആകെത്തുകയാണ് അത് അവിടെ നിന്നും 2 ഉം വരുന്നു I1 അവിടെ പോകുന്നത് I1 ആണ് അത് ആ വഴിക്ക് ഒഴുകുന്നു അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ I2 കൃത്യമായി I1 ആയിരിക്കും ഈ നിയന്ത്രണ സ്രോതസ്സ് വ്യത്യസ്ത ആനുപാതിക സ്ഥിരാങ്കമായാൽ അത് വ്യത്യസ്തമായിരിക്കും അതിനാൽ നമ്മൾക്ക് I2 I1 ആണ് അതുകൊണ്ട് h21 മറ്റൊന്നുമല്ല 1 ആണെന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ അതാണ് h21 മൂല്യം പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെയുള്ള കറന്റ് നേട്ടം ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ഉണ്ട് അവിടെ Vx ദൃശ്യമാകുന്ന പോർട്ട് 2 ന് ഒരു വോൾട്ടേജ് V2 ബാധകമാണ് അതിനാൽ വീണ്ടും നമ്മൾ ഈ കറന്റ് I2 ഉം ഈ വോൾട്ടേജ് V1 ഉം കണക്കാക്കണം Vx എന്നത് V1 ന് തുല്യമാണെന്നും 1 കിലോ Ω റെസിസ്റ്ററിലേക്ക് കറന്റ് ഒഴുകുന്നില്ലെന്നും നിങ്ങൾ കാണുന്നു അതിനാൽ ഇവിടെയുള്ള V2 വോൾട്ടേജ് V1 ന് തുല്യമാണ് അതിനാൽ V1 ന് തുല്യമാണ് V2 നിങ്ങൾ h121 അതായത് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ഉള്ള V 1 V 2 ആണ് അതിനാൽ ഇപ്പോൾ 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം ഈ V2 ദൃശ്യമാകുന്നതിന് ആദ്യം I2 കണക്കാക്കണം അതിനാൽ നമുക്ക് V2 1 കിലോ Ω അല്ലെങ്കിൽ 1 മില്ലിസീമെൻസ് × V2 റെസിസ്റ്ററിലൂടെ ഒഴുകുന്നു കൂടാതെ നമുക്ക് 2 മില്ലിസീമെൻസ് × Vx ഉണ്ട് അതായത് 2 മില്ലിസീമെൻസ് × V1 കാരണം V1 എന്നത് Vx ന് തുല്യമാണ് V2 പോലെ തന്നെ അതിനാൽ ഇവിടെ കറന്റ് 2 മില്ലിസീമെൻസ് × V2 ആണ് അതിനാൽ മൊത്തം കറന്റ് I2 3 മില്ലിസീമെൻസ് × V2 ആണ് അതിനാൽ I2 3 മില്ലിസീമെൻസ് × V2 ആണ് അതിനാൽ h22 I2 V2 ആണ് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ആയതിനാൽ അതായത് 3 മില്ലിസീമെൻസ് ഇതിന്റെ h പാരാമീറ്റർ മാട്രിക്സ് h11 ആണ് അത് 1 കിലോ Ω ആണ് ഇത് h12 ആണ് ഇത് 1 h21 ആണ് അത് 1 ആണ് ഇത് h22 ആണ് ഇത് 3 മില്ലിസീമെൻസ് ആണ് അതിനാൽ അതാണ് h പരാമീറ്റർ മാട്രിക്സ് അതിനാൽ രണ്ട് പോർട്ട് പാരാമീറ്ററുകൾ എളുപ്പത്തിൽ കണക്കാക്കുന്ന സാധാരണ സർക്യൂട്ട് വിശകലനമാണ് ഇത്